അതിനാൽ ആ പ്രക്രിയ അഥവാ ഒരു റിലേഷൻ തന്നിരിക്കുന്നു ഒരു ഡാറ്റാബേസിന്റെ സ്കീമ തന്നിരിക്കുന്നു അത് അർത്ഥമാക്കുന്നത് ഒന്നിലധികം ബന്ധങ്ങൾ മുതലായവ യഥാർത്ഥത്തിൽ സ്കീമകൾ എന്താണെന്ന് രൂപകൽപ്പന ചെയ്യുന്ന പ്രക്രിയയും പൊതുവെ ഡാറ്റാബേസിന്റെ എല്ലാ ഘടകങ്ങളുടെയും എല്ലാ ഗുണങ്ങളും എടുക്കുന്നതും അതിനെ ചെറിയ ബന്ധങ്ങളായി വിഭജിക്കുന്നതിനെ നോർമലൈസേഷൻ എന്ന് വിളിക്കുന്നു അതിനാൽ ആ പ്രക്രിയയെ നോർമലൈസേഷൻ എന്ന് വിളിക്കുന്നു അതിനെ എങ്ങനെ നോർമലൈസ് ചെയ്യാമെന്നതിനെക്കുറിച്ചുള്ള ഈ സിദ്ധാന്തത്തെയാണ് നോർമലൈസേഷൻ തിയറി എന്ന് വിളിക്കുന്നത് കീകളും എഫ്ഡികളും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബന്ധം ഏത് നോർമൽ ഫോമിലാണെന്നു നിർണ്ണയിക്കുന്നു അതിനാൽ വ്യത്യസ്ത സാധാരണ രൂപങ്ങളുണ്ട് ഈ 1NF അല്ലെങ്കിൽ 1st സാധാരണ ഫോം പിന്നെ 2NF അല്ലെങ്കിൽ 2nd സാധാരണ ഫോം പിന്നെ ഇത് 3NF മൂന്നാമത്തെ സാധാരണ ഫോം BCNF ബോയ്സ് കോഡ് നോർമൽ ഫോം എന്ന് ഒന്നും ഉണ്ട് ഇത് വരെ ഇത് മിക്കവാറും പ്രായോഗികമാണ് ഡാറ്റാബേസ് ഡിസൈനർമാർ ഇത് കൈവരിക്കുവാൻ ശ്രമിക്കുന്നു പിന്നീട് ചില ഉയർന്ന ഓർഡർ സാധാരണ ഫോമുകൾ ഉണ്ട് അവ ചില സന്ദർഭങ്ങളിൽ ഉപയോഗപ്രദമാണ് പക്ഷേ മിക്കപ്പോഴും അവ ശ്രമിക്കപ്പെടുന്നില്ല അവയെ 4 ആം സാധാരണ ഫോം 5 ആം സാധാരണ ഫോം എന്ന് വിളിക്കുന്നു ഇതിനെ ചിലപ്പോൾ പ്രോജക്റ്റ് ജോയിൻ നോർമൽ ഫോം എന്നും വിളിക്കുന്നു ഒടുവിൽ ഒരു ഡൊമെയ്ൻ കീ നോർമൽ ഫോം എന്നത് ഉണ്ട് അത് ഒരാൾക്കു എത്താവുന്ന സൈദ്ധാന്തിക പരമാവധി ആണ് അതിനാൽ അടുത്തതായി നമ്മൾ അവ ഓരോന്നും പരിശോധിക്കും അതിനാൽ നമ്മൾ ആദ്യത്തെ സാധാരണ ഫോം അല്ലെങ്കിൽ 1NF ഉപയോഗിച്ച് ആരംഭിക്കുന്നു 1NF ആയ ആദ്യത്തെ സാധാരണ ഫോം അതിനാൽ താഴെ പറയുന്ന വ്യവസ്ഥ നിലനിൽക്കുകയാണെങ്കിൽഅഥവാ ഓരോ ആട്രിബ്യൂട്ടും ആറ്റോമിക് ആണ് എന്ന വ്യവസ്ഥ ഒരു റിലേഷൻ 1NF ൽ ആയിരിക്കും ഇത് കൈവരിച്ചുകഴിഞ്ഞാൽ റിലേഷൻ ആദ്യ സാധാരണ രൂപത്തിലാണെന്ന് പറയപ്പെടുന്നു ഇത് വളരെ നിസ്സാരമാണെന്ന് തോന്നിയേക്കാം പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഒരു റിലേഷൻ ആദ്യ സാധാരണ രൂപത്തിലായിരിക്കില്ലെന്ന് നമുക്ക് കാണാൻ കഴിയും ഉദാഹരണത്തിന് നമ്മൾ മുൻപ് കണ്ടു ഒരു നോൺ ആറ്റോമിക് ആട്രിബ്യൂട്ടിന്റെ ഒരു ഉദാഹരണം അതാണ് പേര് മിക്ക കേസുകളിലും ഒരു പേര് ആദ്യനാമവും അവസാന നാമവുമായി വിഭജിക്കപ്പെടാം അതിനാൽ ഒരു ബന്ധത്തിൽ പേര് അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് 1NF ൽ ആയി കണക്കാക്കില്ല ഇപ്പോൾ 1 എൻഎഫിന്റെ കാര്യം അതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ വാദിക്കാൻ ഒരു വഴിയുമില്ല എന്നതാണ് കാരണം ഇത് ഒരുമിച്ച് ഒരു പേര് ഉണ്ടാക്കുന്നുവെന്നും ഒരു പ്രത്യേക ആപ്ലിക്കേഷനായി ഇത് വിഭജിക്കുന്നതിൽ അർത്ഥമുണ്ടോ എന്നും ഒരാൾക്ക് പറയാൻ കഴിയും അത് വ്യക്തമല്ല അതിനാൽ സാധാരണഗതിയിൽ നമ്മൾ സാധാരണവൽക്കരണ സിദ്ധാന്തം പഠിക്കുമ്പോൾ ബന്ധങ്ങൾ സാധാരണ രൂപത്തിലായിരിക്കുമെന്ന് നമ്മൾ അനുമാനിക്കും അതിനാൽ വീണ്ടും തുടർന്നുള്ള കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ നമ്മൾ ബന്ധങ്ങളുടെ ഉദാഹരണങ്ങൾ കാണും അവിടെ നമ്മൾ പേര് ഉപയോഗിക്കും പേര് ഒരു ആറ്റോമിക് ആട്രിബ്യൂട്ട് ആണെന്ന് നമ്മൾ അനുമാനിക്കും അതിനാൽ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ കാര്യങ്ങൾ ഒന്നാം സാധാരണ രൂപത്തിലാണെന്ന് നമ്മൾ അനുമാനിക്കും അതിനാൽ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ് എല്ലാം ആരംഭിക്കുന്നത് ആദ്യ സാധാരണ രൂപത്തിലാണ് ഇത് ആദ്യത്തെ സാധാരണ രൂപത്തിലല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ എല്ലായ്പ്പോഴും ഈ ആദ്യനാമവും അവസാന നാമവും മുതലായവയായി വിഭജിക്കാനാകും അതിനാൽ 1 ആം സാധാരണ രൂപത്തിലേക്ക് ഒരു ബന്ധം ഉണ്ടാക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അടുത്തതായി മറ്റ് സാധാരണ രൂപങ്ങൾക്ക് ആവശ്യമായ ഒന്നിലേക്ക് നമ്മൾ നീങ്ങുന്നു ആദ്യത്തേതിനെ ഒരു പ്രധാന ആട്രിബ്യൂട്ട് എന്ന് വിളിക്കുന്നു അതിനാൽ ഇത് ഒരു പ്രധാന ആട്രിബ്യൂട്ട് ആണ് ചില കാൻഡിഡേറ്റ് കീയിൽ അംഗമായ ഒരു ആട്രിബ്യൂട്ടിനെ ഒരു പ്രധാന ആട്രിബ്യൂട്ട് എന്ന് വിളിക്കുന്നു ഇത് ചില കാൻഡിഡേറ്റ് കീ ആണ് എന്നത് പ്രധാനമാണ് അതിനാൽ ഒരു വിദ്യാർത്ഥിയുടെ റോൾ നമ്പർ ഒരു ഉദാഹരണമായി എടുക്കാം അതിനാൽ റോൾ നമ്പർ ചില കാൻഡിഡേറ്റ് കീയിലെ അംഗമാണ് അതിനാൽ ഇത് ഒരു പ്രധാന ആട്രിബ്യൂട്ട് ആണ് സമാനമായി ഒരാൾക്ക് നോൺ പ്രൈം ആട്രിബ്യൂട്ട് നിർവ്വചിക്കാൻ കഴിയും അതിനാൽ പ്രൈം അല്ലാത്ത ഏത് ആട്രിബ്യൂട്ടും നോൺ പ്രൈം ആട്രിബ്യൂട്ട് ആണ് അതിനാൽ തത്തുല്യമായ നിർവചനം അത് ഏതെങ്കിലും കാൻഡിഡേറ്റ് കീയിൽ അംഗമല്ല എന്നതാണ് അതിനാൽ ഇത് നല്ലതാണു ഏതെങ്കിലും കാൻഡിഡേറ്റ് കീയിൽ അംഗമല്ല എന്ന് ഉറപ്പുവരുത്താൻ അതിനാൽ ഞാൻ ഈ നൊട്ടേഷനും ഉപയോഗിക്കട്ടെ അതിനാൽ ഇനിമുതൽ നമ്മൾ ക്യാൻഡിഡേറ്റ് കീയെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം അത് ക്യാൻഡിഡേറ്റ് കീ ആണെന്ന് നിർണ്ണയിക്കാൻ ഞാൻ കീ എന്ന വാക്ക് ഉപയോഗിക്കും അതിനാൽ ഞാൻ സന്ദർഭം പരാമർശിക്കുന്നില്ലെങ്കിൽ ഞാൻ കീ എന്ന വാക്ക് മാത്രം പരാമർശിക്കുകയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ ഒരു കാൻഡിഡേറ്റ് കീ എന്നാണ് അർത്ഥമാക്കുന്നത് അതിനാൽ പ്രൈം ആട്രിബ്യൂട്ടും നോൺ പ്രൈം ആട്രിബ്യൂട്ടും മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കണം അപ്പോൾ നമുക്ക് ആവശ്യമായ അടുത്ത നിർവചനം പൂർണ്ണമായ പ്രവർത്തനപരമായ ആശ്രിതത്വം എന്നാണ് അതിനാൽ ഒരു പൂർണ്ണ പ്രവർത്തനപരമായ ആശ്രിതത്വം നിർവ്വചിക്കപ്പെടും പക്ഷേ വീണ്ടും നമ്മൾ ഒരു പ്രവർത്തനപരമായ ആശ്രിതത്വത്തിന് പകരം ഞാൻ FD എന്ന് എഴുതാം അത് അതേ പ്രവർത്തനപരമായ ആശ്രിതത്വത്തിന് തുല്യമാണ് X ൽ നിന്നുള്ള ഏതെങ്കിലും ആട്രിബ്യൂട്ട് നീക്കം ചെയ്യുമ്പോൾ പ്രവർത്തനപരമായ ആശ്രിതത്വം നിലനിൽക്കുന്നില്ലെങ്കിൽ അതൊരു പൂർണ്ണ പ്രവർത്തനപരമായ ആശ്രിതത്വം ആണ് അതിനാൽ X Y ലേക്ക് പോവുകയാണെങ്കിൽ ഇത് ഡിപെൻഡൻസി ആണെങ്കിൽ X കൂടുതൽ കുറയ്ക്കാനാകില്ലെങ്കിൽ ഈ FD യെ പൂർണ്ണമായ പ്രവർത്തന ആശ്രിതത്വം എന്ന് വിളിക്കുന്നു അല്ലാത്തപക്ഷം ഇത് ഒരു ഭാഗിക ആശ്രയമാണ് അതിനാൽ പൂർണ്ണ പ്രവർത്തനപരമായ ആശ്രിതത്വത്തിന്റെ ഒരു ഉദാഹരണം റോൾ പേര് നിർണ്ണയിക്കുന്നു എന്നതാണ് തീർച്ചയായും ഞാൻ ഉദ്ദേശിക്കുന്നത് ഇടത് വശം ഒന്നു മാത്രമാണെങ്കിൽ അതിനെക്കുറിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല അത് എപ്പോഴും നിറഞ്ഞിരിക്കും പക്ഷേ കൂടുതൽ രസകരമായ ചില കാര്യങ്ങളുടെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാം ഇടത് ഭാഗം കുറയുകയും അത് ഇപ്പോഴും ഒരു പ്രവർത്തനപരമായ ആശ്രിതത്വവുമാണെങ്കിൽ ഇത് ഒരു ഭാഗിക പ്രവർത്തനപരമായ ആശ്രിതത്വമാണ് കൂടാതെ ഇവിടെ ഇതാ ഒരു ഉദാഹരണം നിങ്ങൾ റോൾ ലിംഗഭേദം എന്നിവ ഒരുമിച്ച് പേര് നിർണ്ണയിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായും ഇത് ഒരു ഭാഗിക പ്രവർത്തന ആശ്രിതത്വമാണ് കാരണം ഒരാൾക്ക് ലിംഗഭേദം ഒഴിവാക്കാനും ഇപ്പോഴും പ്രവർത്തനപരമായ ആശ്രിതത്വം നിലനിർത്താനും കഴിയും അതിനാൽ ഇത് ഒരു ഭാഗിക പ്രവർത്തന ആശ്രിതത്വമാണ് ഇപ്പോൾ നമുക്ക് ട്രാൻസിറ്റീവ് ഫങ്ഷണൽ ഡിപൻഡൻസി എന്നതിനെക്കുറിച്ച് സംസാരിക്കാം അതിനാൽ X എന്നത് Z നെ നിർണയിക്കുന്നുവെന്ന് കരുതുക ഇത് രണ്ട് പ്രവർത്തനപരമായ ആശ്രിതത്വങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞുവരാൻ കഴിയുമെങ്കിൽ X ൽ നിന്ന് Y Y എന്നത് Z എന്നിവ നിർണ്ണയിക്കുന്നു ഇതിന് ഒരു ഉദാഹരണം ഒരു വിദ്യാർത്ഥിയുടെ റോൾ നമ്പറിൽ നിന്നും ആ വിദ്യാർത്ഥിയുടെ വകുപ്പിന്റെ തലവനിലേക്കു എന്ന് കരുതുക ഇപ്പോൾ ഇതൊരു ട്രാൻസിറ്റീവ് ഫങ്ഷണൽ ഡിപൻഡൻസിയാണ് കാരണം ആ വിദ്യാർത്ഥിയുടെ ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന് റോൾ നമ്പറിന് പറയാൻ കഴിയും ആരാണ് ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ എന്ന് ഡിപ്പാർട്ട്മെന്റ് ഐഡിക്ക് പറയാൻ കഴിയും അതിനാൽ ഇതൊരു ട്രാൻസിറ്റീവ് ഫങ്ഷണൽ ഡിപൻഡൻസിയാണ് തീർച്ചയായും അല്ലാത്തപക്ഷം അത് പരിവർത്തനമല്ല അതിനാൽ X മുതൽ Z വരെയുള്ള FD X മുതൽ Y Y മുതൽ Z വരെ എന്നിങ്ങനെ വിഭജിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അതിനെ നോൺ ട്രാൻസിറ്റീവ് ഫങ്ഷണൽ ഡിപൻഡൻസി എന്ന് വിളിക്കുന്നു അതിനാൽ ഈ നിർവ്വചനത്തിൽ നമ്മൾ നിപുണരായാൽ അടുത്തതായി രണ്ടാമത്തെ സാധാരണ ഫോം അല്ലെങ്കിൽ 2NF എന്ന് വിളിക്കുന്നതിനെ നമുക്ക് നിർവ്വചിക്കാം അതിനാൽ ഓരോ നോൺ പ്രൈം ആട്രിബ്യൂട്ടും എല്ലാ കാൻഡിഡേറ്റ് കീയിലും പൂർണ്ണമായി പ്രവർത്തനപരമായി ആശ്രയിക്കുന്നുവെങ്കിൽ ഒരു റിലേഷൻ രണ്ടാമത്തെ സാധാരണ രൂപത്തിലാണെന്ന് പറയപ്പെടുന്നു അപ്പോൾ ഒരു ബദൽ നിർവചനം ഉണ്ട് അല്ലെങ്കിൽ ഓരോ ആട്രിബ്യൂട്ടും ഒരു കാൻഡിഡേറ്റ് കീയിലായിരിക്കണം അല്ലെങ്കിൽ എല്ലാ കാൻഡിഡേറ്റ് കീയിലും പൂർണമായി ആശ്രയിക്കണം അതിനാൽ ഇവ രണ്ടും ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന തുല്യമായ നിർവചനങ്ങളാണ് നമുക്ക് രണ്ടാമത്തെ നിർവചനം എടുക്കാം രണ്ടാമത്തെ നിർവചനം പറയുന്നത് ഓരോ ആട്രിബ്യൂട്ടും ഒരു കാൻഡിഡേറ്റ് കീയിലാണ് അതായത് അത് ഒരു പ്രധാന ആട്രിബ്യൂട്ടാണ് ഇല്ലെങ്കിൽ അതിനർത്ഥം ഇത് ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ട് ആണ് അപ്പോൾ അത് എല്ലാ കാൻഡിഡേറ്റ് കീയെയും പൂർണമായും ആശ്രയിക്കുന്നു അതിനാൽ ഇത് ഒരു പ്രധാന ഭാഗമാണ് ഇത് ഓരോ കാൻഡിഡേറ്റ് കീ ആണ് കൂടാതെ ഇത് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇത് എല്ലാ പ്രധാനമല്ലാത്ത ആട്രിബ്യൂട്ട് കൂടി ആയിരിക്കണം ഇവ രണ്ടും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെയും ഇവിടെയും അതിനാൽ രണ്ടാമത്തെ സാധാരണ രൂപം എന്താണ് അർത്ഥമാക്കുന്നത് ഈ ഒരു ഉദാഹരണം നോക്കാം ഇനിപ്പറയുന്ന സ്കീമ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ id proj id hours name project name എന്നിവ അതിനാൽ ഇതാണ് നമ്മൾ പരിഗണിക്കുന്ന സ്കീമ ഇത് രണ്ടാമത്തെ സാധാരണ രൂപത്തിലാണോ അല്ലയോ എന്ന് വാദിക്കാൻ നമ്മൾ ശ്രമിക്കും ഇപ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട് ഒരു റിലേഷൻ രണ്ടാമത്തെ സാധാരണ രൂപത്തിലാണോ അല്ലയോ എന്ന് നിർണ്ണയിക്കാൻ പ്രവർത്തനപരമായ ആശ്രിതത്വം വ്യക്തമാക്കണം അതിനാൽ ഇത് ചോദ്യത്തിന്റെ ഭാഗമാണ് അതിനാൽ ഇത് ഏത് തരത്തിലുള്ള റിലേഷനിലാണെന്നോ ഏത് സാധാരണ രൂപത്തിലാണെന്നോ പ്രവർത്തനപരമായ ആശ്രിതത്വം നൽകിയിട്ടില്ലെങ്കിൽ ആർക്കും ഉത്തരം നൽകാൻ കഴിയില്ല അതിനാൽ പ്രവർത്തനപരമായ ആശ്രിതത്വം നൽകാൻ രണ്ട് വഴികളുണ്ട് ആദ്യം സാധാരണയായി ചെയ്യുന്നത് പ്രാഥമികമായ അല്ലെങ്കിൽ ക്യാൻഡിഡേറ്റ് കീകൾ അടിവരയിടുന്നു അതിനാൽ ഇത് അടിസ്ഥാനപരമായി അർത്ഥമാക്കുന്നത് ഇത് ഇനിപ്പറയുന്ന പ്രവർത്തനപരമായ ആശ്രിതത്വത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുന്നു അഥവാ ഐഡി പ്രോജക്റ്റ് ഐഡി എന്നിവ ഒരുമിച്ച് ക്യാൻഡിഡേറ്റ് കീയാണ് എന്നാണ് അതിനാൽ ഇത് മറ്റെല്ലാം നിർണ്ണയിക്കുന്നു അതിനാൽ ഉദാഹരണത്തിന് ഇത് മണിക്കൂറുകൾ നിർണ്ണയിക്കുന്നു തുടർന്ന് ഇത് പേരും പ്രോജക്റ്റ് പേരും നിർണ്ണയിക്കുന്നു മുതലായവ എന്നാൽ അതിനുപുറമേ വ്യക്തമാക്കിയ മറ്റ് പ്രവർത്തനപരമായ ആശ്രിതത്വങ്ങളും ഉണ്ടായേക്കാം ഉദാഹരണത്തിന് ഐഡി പേര് നിർണ്ണയിക്കുന്നുവെന്നും പ്രോജക്റ്റ് ഐഡി പ്രോജക്റ്റ് പേര് നിർണ്ണയിക്കുന്നുവെന്നും ഒരാൾക്കു പറയാവുന്നതാണ് അതിനാൽ ഇവയാണ് നൽകിയിരിക്കുന്ന മൂന്ന് പ്രവർത്തനപരമായ ആശ്രിതത്വങ്ങൾ ഇപ്പോൾ അടിസ്ഥാനപരമായി ഇത് അനാവശ്യമാണ് എന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയും കാരണം ഐഡി കോഴ്സിന്റെ പേര് നിർണ്ണയിക്കുകയാണെങ്കിൽ ഐഡി പ്രോജക്റ്റ് ഐഡി എന്നിവ പേരും നിർണയിക്കുന്നു അതിനാൽ ഈ റിലേഷൻ 2NF ആണോ എന്നതാണ് ചോദ്യം അതാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ചോദ്യം ആ ചോദ്യത്തിന് നമ്മൾ എങ്ങനെ ഉത്തരം നൽകും അതിനാൽ നമ്മൾ ഓരോ ആട്രിബ്യൂട്ടും പരിശോധിച്ച് അത് 2NF ന്റെ അവസ്ഥ തൃപ്തിപ്പെടുത്തുന്നുണ്ടോ എന്ന് നോക്കുന്നു അതിനാൽ ആദ്യം നമുക്ക് ഈ ആട്രിബ്യൂട്ട് പരിശോധിക്കാം ഇപ്പോൾ ഇത് ഒരു കാൻഡിഡേറ്റ് കീയിലാണ് അതിനാൽ ഇത് ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ട് അല്ല അതിനാൽ ഒന്നും ചെയ്യാനില്ല അത് ഇതിനകം തൃപ്തികരമാണ് പ്രോജക്റ്റ് ഐഡി പ്രൊജക്റ്റ് ഐഡി വീണ്ടും ഒരു കാൻഡിഡേറ്റ് കീയിലാണ് അതിനാൽ അത് നല്ലതാണ് ഇപ്പോൾ നമുക്ക് മണിക്കൂറുകൾ പരിഗണിക്കാം അതിനാൽ മണിക്കൂറുകൾ അത് എല്ലാ കാൻഡിഡേറ്റ് കീയെയും പൂർണമായി ആശ്രയിക്കുന്നുണ്ടോ അപ്പോൾ എന്താണ് ഏക കാൻഡിഡേറ്റ് കീ ഇവിടെയുള്ള ഏക കാൻഡിഡേറ്റ് കീ ഐഡിയും പ്രൊജക്റ്റ് ഐഡിയും മാത്രമാണ് അതിനാൽ മണിക്കൂറുകൾ പൂർണ്ണമായും ഐഡിയെയും പ്രോജക്റ്റ് ഐഡിയെയും ആശ്രയിച്ചിരിക്കുന്നു അതിനർത്ഥം ഐഡിയോ പ്രോജക്റ്റ് ഐഡിയോ തനിയെ മണിക്കൂറുകൾ നിർണ്ണയിക്കുന്നില്ല എന്നാണ് ഇനി നമുക്ക് പേര് പരിഗണിക്കാം ഇപ്പോൾ പേരിനു സംഭവിക്കുന്നത് പേര് ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ട് ആണ് ഇത് ഐഡിയും പ്രോജക്റ്റ് ഐഡിയും ഉപയോഗിച്ച് പൂർണ്ണമായും നിർണ്ണയിക്കപ്പെടുന്നില്ല കാരണം പേരിനു ഈ ഭാഗിക ഐഡി ഉണ്ട് അതിനാൽ അതിന്റെ അർത്ഥം പേര് പൂർണ്ണമായി നിശ്ചയിച്ചിട്ടില്ല എന്നാണ് അതിനാൽ അതിന്റെ അർത്ഥം 2NF ടെസ്റ്റിൽ പേര് പരാജയപ്പെടുന്നു ഈ ബന്ധം 2NF ൽ ഉള്ളതല്ല എന്നതാണ് അതിന്റെ ഉത്തരം ഇപ്പോൾ അതിൽ അപാകതയില്ല എന്ന് ഒരാൾ വാദിച്ചേക്കാം പക്ഷേ ഈ 2NF എങ്ങനെയാണു ഉപയോഗപ്രദമാകുന്നത് അതിനാൽ 2NF പ്രധാനമായും പറയുന്നത് സ്കീം നിർണ്ണയിക്കുന്ന രീതിയിൽ ചില പ്രശ്നമുണ്ടെന്നാണ് എന്താണ് പ്രശ്നം ഇപ്പോൾ ഐഡി ഉപയോഗിച്ച് മാത്രമാണ് ആ പേര് നിർണ്ണയിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ കാണുന്നു ഐഡിയും പ്രൊജക്റ്റ് ഐഡിയും ഒരുമിച്ച് എന്നാണ് അതിനർത്ഥം കീ അനാവശ്യമാണ് അതിന് അത് ആവശ്യമില്ല അതിനാൽ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു വ്യക്തിയുടെ പേര് മാറ്റിയെന്ന് കരുതുക അതിനാൽ ഐഡിക്ക് അനുബന്ധമായി പേര് മാറ്റി ഇപ്പോൾ ആ വ്യക്തി പല പ്രോജക്ടുകളിലും ജോലി ചെയ്യുന്നുണ്ട് ആ ട്യൂപ്പുകളെല്ലാം പരിഷ്ക്കരിക്കേണ്ടതുണ്ട് അതിനാൽ അതാണ് പ്രശ്നം എന്തുകൊണ്ടാണ് അവ ആ ട്യൂപ്പുകളെല്ലാം പരിഷ്ക്കരിക്കേണ്ടത് കാരണം പേര് മാറ്റുന്നതിലൂടെ ഒരാൾ ഐഡിയെക്കുറിച്ച് അല്ലെങ്കിൽ തിരിച്ചും തർക്കിക്കേണ്ടതുണ്ട് പക്ഷേ പ്രോജക്റ്റ് ഐഡി എന്നത് ഈ റിലേഷന്റെ കാൻഡിഡേറ്റ് കീയുടെ ഭാഗമായ ഒന്നാണ് അതിനാൽ നമ്മൾ പേരിനെക്കുറിച്ച് തർക്കിക്കുമ്പോൾ പ്രോജക്റ്റ് ഐഡി ഒരർത്ഥത്തിൽ അനാവശ്യമാണ് എന്നാൽ എന്തുകൊണ്ടാണ് അത് അനാവശ്യമായിരിക്കുന്നത് കാരണം ഐഡി പ്രോജക്റ്റ് ഐഡി എന്നിവയെ പേര് പൂർണ്ണമായും ആശ്രയിക്കുന്നില്ല അതിനാലാണ് 2NF ഉപയോഗപ്രദമാകുന്നത് അതിനാലാണ് ഒരു ബന്ധം 2NF ൽ ആണോ അല്ലയോ എന്ന് നിർണ്ണയിക്കുന്നത് അർത്ഥമാക്കുന്നത് ഇപ്പോൾ ഈ ബന്ധം 2NF ആക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക അതിനാൽ ഈ പ്രക്രിയയെ 2NF നോർമലൈസേഷൻ എന്ന് വിളിക്കുന്നു അതിനാൽ മുകളിലുള്ള സ്കീമ 2NF ൽ ഇല്ലെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ 2NF നോർമലൈസ് ചെയ്യുന്നത് ഇത് ചെയ്യാനുള്ള മാർഗ്ഗം നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന പട്ടികകളായി വിഭജിക്കുക എന്നതാണ് അതിനാൽ ആദ്യ പട്ടികയിൽ ഐഡിയും പ്രോജക്റ്റ് ഐഡിയും മണിക്കൂറുകളും അടങ്ങിയിരിക്കുന്നു ഇത് ആദ്യത്തെ പട്ടികയാണ് രണ്ടാമത്തെ പട്ടിക ഇതാണ് അതിനാൽ ഈ കാര്യത്തിനുള്ള കീ ഐഡിയും പ്രോജക്റ്റ് ഐഡിയും ആണ് അതിനാൽ രണ്ടാമത്തേത് ഐഡിയും പേരും ആണ് മൂന്നാമത്തേത് പ്രോജക്റ്റ് ഐഡിയും പ്രോജക്റ്റ് പേരും ആണ് ഇത് ഒരു മികച്ച രൂപകൽപ്പനയാണെന്ന് അവബോധപൂർവ്വം ഒരാൾക്ക് കാണാൻ കഴിയും കാരണം നമ്മൾ തമ്മിൽ തർക്കിച്ചുകൊണ്ടിരുന്നതാണ് അതിനാൽ പേര് ഐഡിയെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ എന്തുകൊണ്ട് ഇത് ഒരു പ്രത്യേക പട്ടികയിലേക്ക് വിഭജിച്ചുകൂടാ അതുപോലെ പ്രോജക്റ്റിന്റെ പേര് പ്രോജക്റ്റ് ഐഡിയെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ എന്തുകൊണ്ട് ഇത് ഒരു പ്രത്യേക പട്ടികയിലേക്ക് വിഭജിച്ചുകൂടാ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ മുമ്പത്തെ ഉദാഹരണത്തിലേക്ക് പോകുകയാണെങ്കിൽ ഒരാൾ പേര് മാറ്റുകയാണെങ്കിൽ ഈ മുഴുവൻ വിവരങ്ങളും ഡാറ്റാബേസിൽ മാറ്റേണ്ട ഒരേയൊരു സ്ഥലം മാത്രമേയുള്ളൂ ആ പ്രത്യേക ഐഡിക്ക് പേരുനൽകുന്ന ട്യൂപ്പിൾ അതുപോലെ ഒരു പ്രോജക്റ്റിന്റെ പേര് മാറ്റുകയാണെങ്കിൽ അത് സ്പർശിക്കേണ്ട ഒരേയൊരു സ്ഥലം മാത്രമേയുള്ളൂ മറ്റ് പട്ടികകൾ സ്പർശിച്ചിട്ടില്ല അതിനാൽ പരിഷ്കരണ അപാകത മുതലായവ ഇല്ല ഔപചാരികമായി ഇത് മറ്റേതിനേക്കാൾ മികച്ച രൂപകൽപ്പനയാണോ എന്നും നമുക്ക് പരിശോധിക്കാവുന്നതാണ് കാരണം ഈ മൂന്ന് ബന്ധങ്ങളിൽ ഓരോന്നും 2NF ൽ ആണോ എന്ന് ഇപ്പോൾ നമുക്ക് പരിശോധിക്കാനാകും നിങ്ങൾ ഇത് പരീക്ഷിക്കുകയാണെങ്കിൽ ഇതെല്ലാം യഥാർത്ഥത്തിൽ 2NF ൽ ആണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താനാകും അതിനാൽ ഇത് 2 എൻഎഫിലാണ് ഇതും 2 എൻഎഫിലാണ് ഇതും 2 എൻഎഫിലാണ് അതിനാൽ ഈ മൂന്ന് പട്ടികകളായി വിഭജിക്കുന്ന രൂപകൽപ്പന ഒരു മികച്ച രൂപകൽപ്പനയാണെന്ന് നമ്മൾ അനൌപചാരികമായും ഔപചാരികമായും വാദിച്ചു